രസതന്ത്രത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ നമ്മൾ തന്മാത്രകളുടെ സ്പെക്ട്രോസ്കോപ്പി നോക്കുന്നു ഇനി നമുക്ക് വളരെ വേഗം അവസാന ഭാഗത്തിലേക്ക് പോകാം അതായത് ഗുണപരമായ ഇലക്ട്രോണിക്സ് സ്പെക്ട്രംഇലക്ട്രോണിക്സ് സ്പെക്ട്രത്തിന്റെ വശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ഇലക്ട്രോണിക് സ്പെക്ട്രയിൽ പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫ്രാങ്ക് കോണ്ടൺ തത്വം എന്ന് വിളിക്കപ്പെടുന്ന സ്ക്രീനിൽ ഇനിപ്പറയുന്നവയുണ്ട് ഇലക്ട്രോണിക് സംക്രമണത്തിന് യുവി പ്രകാശത്തിന് ദൃശ്യമാകുന്ന ഊർജ്ജം ആവശ്യമാണെന്ന് ദയവായി ഓർക്കുക തന്മാത്രയുടെ വൈബ്രേഷണൽ ചലനം ഇൻഫ്രാറെഡ് ശ്രേണിയിലാണെന്നും തന്മാത്രയുടെ ഭ്രമണങ്ങൾ സംഭവിക്കുമെന്നും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ തന്മാത്രയുടെ ജ്യാമിതീയ ഭ്രമണം വളരെ കുറഞ്ഞ ഊർജ്ജത്തിലാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് ഒരു തന്മാത്ര ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോണിക് ആയി ആവേശഭരിതമാകുമ്പോൾ പരിവർത്തന സമയത്ത് ഒരു തന്മാത്രാ ജ്യാമിതി മാറാൻ വളരെ കുറച്ച് സമയമേയുള്ളൂ തന്മാത്രയിലെ ജ്യാമിതി മാറ്റങ്ങൾക്ക് പരസ്പരം ആപേക്ഷിക തന്മാത്രാ സ്ഥാനചലനം അല്ലെങ്കിൽ പരസ്പരം ആപേക്ഷിക ദിശകൾ ആവശ്യമാണെന്ന് നിങ്ങൾ ഓർക്കുക ഇവക്കെല്ലാം കുറഞ്ഞ ഊർജ്ജവും കൂടുതൽ സമയവും ആണ് വേണ്ടത് വാസ്തവത്തിൽ ആവൃത്തി എന്നത് പ്രക്രിയ നടക്കുന്നത്തിന്റെ നിരക്ക് ആണ് അതിനാൽ ഇൻഫ്രാറെഡ് മേഖലയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽതന്മാത്രാ ബന്ധം ഞാൻ അർത്ഥമാക്കുന്നത് വൈബ്രേഷൻ ആണ് ഇൻഫ്രാറെഡ് ലൈറ്റിന്റെ ആവൃത്തി നിങ്ങൾക്ക് സമയ സ്കെയിലും നൽകുന്നു ആവൃത്തിയുടെ വിപരീതം ഒരു സമയ യൂണിറ്റ് ആവൃത്തി തന്നെ ഒരു സമയ വിപരീത യൂണിറ്റ് ആണ് സമയ സ്കെയിൽ ഓരോ തവണയും മാറ്റങ്ങൾ നടക്കുന്ന സ്ഥലം പറയുന്നു അതിനാൽ ആവൃത്തി വളരെ ഉയർന്നതാണെങ്കിൽ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയ സ്കെയിൽ വളരെ വളരെ ചെറിയതു ആയിരിക്കും ഇലക്ട്രോണിക് ട്രാൻസിഷൻ വളരെ ഉയർന്ന ആവൃത്തിയിലാണ് നടക്കുന്നത് വൈബ്രേഷനിലും റൊട്ടേഷനിലുമുള്ള ഇലക്ട്രോണിക് തന്മാത്ര ചലനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതുകൊണ്ടു തന്മാത്രാ ചലനത്തിന്റെ സമയ സ്കെയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇലക്ട്രോണിക് പരിവർത്തനം നടക്കുന്ന സമയ സ്കെയിൽ വളരെ കുറവാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു സാധാരണ ഡയടോമിക് സാധ്യതയുള്ള ഊർജ്ജവക്രമാണ് ഞാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തന്മാത്രാ സാധ്യതയുള്ള ഊർജ്ജമാണ് താഴ്ന്ന അവസ്ഥയ്ക്കായുള്ള ഒരു ഡയാറ്റോമിക് തന്മാത്രയ്ക്കുള്ള ഒരു പ്രവർത്തനമെന്ന നിലയിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ആവേശകരമായ അവസ്ഥയ്ക്ക് ഈ പരിവർത്തന സമയത്ത് തന്മാത്രയുടെ ബോണ്ട് ദൈർഘ്യത്തിൽ മാറ്റമില്ലാത്ത ലംബമായി നിലത്തുനിന്നുള്ള ഭൂപ്രകൃതിയിലേക്കുള്ള വൈദ്യുത പരിവർത്തനം സംഭവിക്കുന്നു നിങ്ങൾ ഇവിടെ അനുബന്ധ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ലംബമല്ലാത്ത സംക്രമണങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഈ രണ്ട് വരികൾ നിങ്ങൾ കാണും നിങ്ങൾ ഇത് നോക്കിയാൽ ഇതാണ് മോളിക്യുലർ ബോണ്ട് ഇവിടെ ബോണ്ടിന്റെ നീളം അല്പം വ്യത്യസ്തമായ ബോണ്ട് ദൈർഘ്യമുണ്ട് അത്തരം പരിവർത്തനങ്ങൾ അനുവദനീയമല്ല ഈ തത്വം ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലെ മൂലക്കല്ലുകളിലൊന്നായി അറിയപ്പെടുന്നു ഈ തത്ത്വം അടിസ്ഥാനമാക്കിയുള്ളത് ഈ ജെയിംസ് ഫ്രാങ്കിനെയും ഇ യു കോണ്ടനെയും കണ്ടെത്തിയ രണ്ട് വ്യക്തികൾക്ക് ശേഷമാണ് ഫ്രാങ്ക് കോണ്ടൺ തത്ത്വം എന്നാണ് അറിയപ്പെടുന്നത് അതിലൂടെ ഇലക്ട്രോണിക് സംക്രമണങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പക്കലുള്ളത് ലംബമായ ഇലക്ട്രോണിക് പരിവർത്തനം മാത്രമാണ് ഇതിൽ കൂടുതൽ നമ്മൾ കാണും പിന്നീട് എന്നാൽ ഇതിന്റെ ഫലമായി നിരവധി വ്യത്യസ്ത സാധ്യതകൾ നിങ്ങൾ കാണുന്നു തന്മാത്രാ ഇലക്ട്രോണിക് ആവേശം അടുത്ത മിനിറ്റിൽ ഞാൻ സംഗ്രഹിക്കും തന്മാത്രയുടെ ഭൌമോപരിതലത്തിലെ സാധ്യതയുള്ള ഊർജ്ജവും തന്മാത്രയുടെ ഉത്തേജിതാവസ്ഥയുടെ സാധ്യതയുള്ള ഊർജ്ജവും രണ്ടും ബന്ധിതമായ അവസ്ഥകളെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ തന്മാത്ര ഉയർന്ന ഊർജ്ജാവസ്ഥയിലേക്ക് ആവേശം കൊള്ളുന്നത് നിങ്ങൾ കാണുന്നു ഇത് ഒരു മേശയാണ് തന്മാത്രകൾ ബന്ധിതമായ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നു അതിനാൽ അതിന് പ്രകാശം പുറപ്പെടുവിക്കാനും താഴ്ന്ന അവസ്ഥയിലെത്താനും കഴിയും ഇത് ഫ്ലോറസെൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഒരു അവസ്ഥയിലെ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കുകയും പിന്നീട് പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നത് വ്യത്യസ്ത ആവൃത്തിയാണ് അതിനെ ഫോസ്ഫോറസൻസ് എന്ന് വിളിക്കുന്നു വ്യത്യസ്ത സാധ്യതകൾ ഇവിടെ നിലനിൽക്കുന്നു തന്മാത്രയിലെ വിവിധ ഇലക്ട്രോണിക് അവസ്ഥയിലെ സ്ഥിതികോർജം ഉണ്ടെങ്കിൽ ഗ്രൌണ്ട് സ്റ്റേറ്റ് സ്ഥിതികോർജ്ജത്തിൽ ഉള്ള ബോണ്ടന്റെ നീളം ഉത്തേജിത അവസ്ഥയിലെ ബോണ്ടന്റെ ദൈർഖ്യം അല്പം വ്യത്യസ്തമാണ് ഉത്തേജിതാവസ്ഥയിലെ സന്തുലിത ബോണ്ട് ദൈർഖ്യം ഗ്രൌണ്ട് സ്റ്റേറ്റിൽ ഇവിടെയുണ്ട് ഈ രണ്ട് വ്യത്യസ്ത അവസ്ഥകൾക്കിടയിൽ തത്വത്തിന്റെ സന്തുലിത ബോണ്ട് നീളം വ്യത്യസ്തമാണ് തുടർന്ന് വിഘടനം ഒരു പരിവർത്തനത്തിലേക്ക് നയിച്ചേക്കാം ഉദാഹരണത്തിന്അടുത്ത ഗ്രാഫിൽ നിങ്ങൾ തന്മാത്രയിൽ പോലെ ഊർജ്ജനിലയെ ഉത്തേജിപ്പിക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ ഉത്തേജിതമായ ഒരു തന്മാത്ര ഇതുപോലുള്ള ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് ഇത് ഒരു വൈബ്രേഷൻ ചലനത്തെ വിഘടിപ്പിക്കുന്നതിലേക്ക് മാറ്റാൻ ഇടയാക്കും തന്മാത്രാ പരിവർത്തനം ആവേശകരമായ അവസ്ഥകൾക്ക് തന്മാത്രയ്ക്ക് ഒരു ബന്ധിത അവസ്ഥയും ഇല്ല വൈബ്രേഷണൽ ബന്ധമില്ലാത്ത അവസ്ഥ അത്തരം ആവേശം ഇലക്ട്രോണിക് വഴി തന്മാത്രയുടെ വിഘടനത്തിലേക്ക് നയിക്കുന്നു നമ്മൾ ചെയ്യുന്ന ഇലക്ട്രോണിക് സ്പെക്ട്രയിൽ വിവിധ സാധ്യതകളുണ്ട് നമ്മൾ മൈക്രോവേവ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്നിവ ചെയ്തതിനുശേഷം കൂടുതൽ നോക്കാം കാരണം ഇലക്ട്രോണിക് സ്പെക്ട്രം മറ്റേതിനേക്കാളും വളരെ സമ്പന്നമാണ് മാത്രമല്ല ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ് മനസിലാക്കാൻ തന്മാത്രയിൽ നടക്കുന്ന മൂന്ന് പ്രക്രിയകൾ നമ്മൾ നോക്കി ഉദ്വമനം സ്വയമേവയുള്ള ഉദ്വമനം വികിരണത്തിന്റെ സാന്നിധ്യത്തിൽ ആഗിരണം ഉത്തേജിത ഉദ്വമനം ആൽബർട്ട് ഐൻസ്റ്റീന്റെ മാതൃക പിന്തുടരുന്ന ഈ മൂന്ന് പ്രക്രിയകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ കണക്കാക്കി വികിരണ പ്രക്രിയകൾക്കുള്ള അർദ്ധ ക്ലാസിക്കൽ മോഡൽ കൂടാതെ വികിരണ പ്രക്രിയകളും തന്മാത്രാ ഗുണങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ എത്തിച്ചേർന്നു അതായത് ദ്വിധ്രുവ നിമിഷം ബിയർ ലാംബെർട്സ് നിയമം തന്മാത്രാ ഇനങ്ങളുടെ സാന്ദ്രതയുമായി ബന്ധപ്പെട്ട അളവിലുള്ള പ്രതിഭാസമായി ആഗിരണം ചെയ്യുന്നത് നോക്കിയതാണ് രണ്ടാമത്തേത് കൂടാതെ പദാർത്ഥത്തിന്റെ സവിശേഷതകളും പദാർത്ഥം ആഗിരണം ചെയ്യുന്ന പ്രകാശവും നിങ്ങൾക്ക് ഗുണകം നൽകുന്നു അതിനാൽ കൂടുതൽ പഠനത്തിന് ഉപയോഗപ്രദമാകുന്ന ഒരു സ്വത്ത് ബിയർ ലാംബർട്ട് നിയമമാണ് മൂന്നാമതായി നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ വളരെ പ്രാഥമിക ഗുണപരമായ വശമാണ് നോക്കിയത്